മെത്തേഡ് ഓഫ് ഇമേജസ് II ഗ്രൌണ്ട് ചെയ്യപ്പെട്ട പരന്ന ലോഹപ്രതലത്തിന്റെയും ലോഹ ഗോളത്തിന്റെയും മുൻവശത്തുള്ള പോയിന്റ് ചാർജ് ഇതിനു മുൻപത്തെ ക്ലാസ്സിൽ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എർത്ത് ചെയ്തിരിക്കുന്ന അതായത് പൊട്ടെൻഷ്യൽ V0 ആയിരിക്കുന്ന ഒരു പരന്ന ലോഹ പ്രതലത്തിന് അഥവാ ലോഹോപരിതലത്തിനു മുൻവശത്തായി സ്ഥിതിചെയ്യുന്ന ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള പൊട്ടെൻഷ്യൽ കാണാനായി അനന്വയമായ അഥവാ സദൃശമായി മറ്റൊന്നില്ലാത്ത ഒരു സൊല്യൂഷൻ നാം ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമ്മൾ കണ്ടത് ഈ പ്രതലത്തിലെ പൊട്ടൻഷ്യൽ കാണാനായി പ്രതലത്തിന്റെ മുൻവശത്തുള്ള ചാർജ് q ആണെങ്കിൽ ഇതിനോട് തുല്യവും വിപരീതവുമായ മറ്റൊരു പോയിന്റ് ചാർജ് അതായത് q പ്രതലത്തിന്റെ മറുവശത്ത് അതേ ദൂരത്തിൽ ഉദാഹരണമായി ഇവിടെ z0 ദൂരത്തിൽ വെച്ചാൽ മതി എന്നായിരുന്നു നമ്മൾ അവിടെ പ്രതല ചാർജ് സാന്ദ്രത അഥവാ സർഫസ് ചാർജ് ഡെൻസിറ്റി 𝜎 കൂടെ കണ്ടുപിടിച്ചു

അപ്പോൾ q ചാർജ് ലോഹ പ്രതലത്തിനു സമീപം കൊണ്ടുവരുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും കാരണം നിങ്ങൾക്കറിയാം ഈ ലോഹപ്രതലത്തിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജ് q എന്ന ചാർജിനെ ആകർഷിക്കുന്നു എന്നുള്ള കാര്യം മറ്റൊരു വിധത്തിലും ഇത് കാണാവുന്നതാണ് അതായത് പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ ചെയ്തതുപോലെ മറുവശത്ത് ഒരു q ചാർജ് ഉണ്ടെന്നു സങ്കൽപ്പിച്ച് അത് കാരണമുള്ള ഫോഴ്സ് നേരിട്ട് കണ്ടാലും മതി അതായത് q ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കാണാൻ q ചാർജും q ചാർജും തമ്മിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ചാർജും അതിന്റെ പ്രതിബിംബം അഥവാ ഇമേജും തമ്മിലുള്ള ഫോഴ്സ് കണ്ടാൽ മതി അതായത് q ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടുന്നത് ആകർഷണ ബലമാണെന്നു കാണിക്കാൻ നെഗറ്റീവ് ചിഹ്നവും യൂണിറ്റ് വെക്റ്റർ ẑ ഉം ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ ഫോഴ്സ് 1 4z02 ന് ആനുപാതികമായിരിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ് ഡെൻസിറ്റി 𝜎 | z0 കാരണം ചാർജ് q വിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിച്ച് അത് നേരത്തെ കണ്ട ഫോഴ്സിനോട് തുല്യമാണെന്ന് തെളിയിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഒരു പരിശീലന പ്രവർത്തനമായി തരികയാണ് അടുത്തതായി ചാർജ് q കാരണമുള്ള സ്ഥിതവൈദ്യുത പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കുമെന്ന് നോക്കാം നേരത്തെ പറഞ്ഞത് പ്രകാരം ഇവിടെയും ചാർജ് q ഇമേജ് ചാർജ് q ഇവ ലോഹപ്രതലത്തിൽ നിന്നും യഥാക്രമം z0 z0 ദൂരത്തിൽ സ്ഥിതിചെയ്യുന്നു എന്ന് കരുതിയാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി V എന്നത് എന്ന് എഴുതാൻ സാധിക്കുമോ എന്നതാണ് പ്രധാന സംശയം കാരണം രണ്ടു ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള സമവാക്യമാണല്ലോ ഇത് എന്നാൽ ഇവിടെ അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇതിന്റെ കാരണം നമുക്ക് എളുപ്പം മനസിലാക്കാവുന്നതാണ് ഒരു നിശ്ചിത ചാർജ് വിന്യാസം കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇത് നമുക്ക് എന്ന് എഴുതാവുന്നതാണ് നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്നാൽ ചാർജ് ഡെൻസിറ്റി സ്ഥിരമായിരിക്കുമ്പോൾ ചാർജിനെ ഇൻഫിനിറ്റി അഥവാ അനന്തതയിൽ നിന്നും ഈ ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നതിന് ചെയ്യപ്പെടുന്ന പ്രവൃത്തി അഥവാ വർക് ആയിരിക്കുമെന്ന് ഇവിടെ ചാർജ് ഡെൻസിറ്റി എപ്പോഴും മാറാതെ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാൽ ഇവിടെ നമുക്കറിയാം ഇമേജ് ചാർജിന്റെ കാര്യത്തിൽ ചാർജ് അനന്തതയിൽ നിന്നും ഈ ബിന്ദുവിലേക്ക് കൊണ്ടു വരികയോ അല്ലെങ്കിൽ ഇവിടെനിന്നും അനന്തതയിലേക്ക് കൊണ്ടുപോകയോ ചെയ്യുമ്പോൾ z0 മാറുന്നതിന് അനുസരിച്ച് ചാർജ് ഡെൻസിറ്റി 𝜎 വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടുതന്നെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഈ സമവാക്യം നേരിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല അങ്ങനെ എടുക്കയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ ഫോർമുല അതായത് എന്ന് ലഭിക്കും അവിടെ 𝜌 എന്നത് ഡെൽറ്റ ഫങ്ക്ഷൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് W മറ്റൊരു രീതിയിൽ വ്യക്തമായി കണ്ടുപിടിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ചാർജ് q വിനെ z0 വിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനാവശ്യമായ വർക്ക് W കണ്ടുപിടിക്കാം ഈ വർക്ക് അതായത് വർക്ക് W എന്നത് ചാർജിന്റെ ഇൻഫിനിറ്റിയിലും z0 യിലുമുള്ള പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നമുക്ക് ഇത് എത്രയെന്നു നോക്കാം q ചാർജ് പ്രതലത്തിൽ നിന്നും z ദൂരത്തിൽ സ്ഥിതിചെയ്യുന്നെങ്കിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിരിക്കും അപ്പോൾ ഇതിനെ അവിടെ നിന്നും നീക്കാനായി ബാഹ്യമായി പ്രയോഗിക്കേണ്ടിവരുന്ന ഫോഴ്സ് ആയിരിക്കുമല്ലോ അതായത് ഈ ചാർജിനെ z0 യിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് നീക്കാനായി നമ്മൾ ബാഹ്യമായി ചെയ്യേണ്ടിവരുന്ന വർക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇത് എന്നാകുന്നു ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ '0 ' എന്നെടുത്താൽ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇക്വേഷനിൽ നേരത്തെ കിട്ടിയിരുന്നത് 1 എന്നായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ അതിനുപകരം 1 എന്നാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയെ ഇമേജ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്ന അതായത് സീറോ പൊട്ടൻഷ്യലിൽ ഉള്ള ഒരു പ്രതലത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോഹ ഉപരിതലത്തിന്റെ മുന്നിലായി z0 ദൂരത്തിൽ സ്ഥിതിചെയ്യുന്ന q ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇതിനെയാണ് ഇമേജ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും 2z0 അകലത്തിൽ സ്ഥിതിചെയ്യുന്ന രണ്ടു ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനോട് തുല്യമായിരിക്കില്ല എന്ന കാര്യം ഒരിക്കൽക്കൂടി ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഇവിടെ നമ്മൾ ടെസ്റ്റ് ചാർജ് q നീക്കുമ്പോൾ ചാർജ് വിന്യാസം തന്നെ മാറുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ചാർജ് q വിൽ ഇമേജ് ചാർജ് കൊണ്ട് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യലുംഫോഴ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും കണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ z0 ദൂരത്തിൽ സ്ഥിതിചെയ്യുന്ന ചാർജ് ഉളവാക്കുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി 𝜎 കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കൂടി കണ്ടു പിടിച്ച് റിസൾട്ട് എന്താണെന്ന് നോക്കൂ ഇതേ രീതിയിൽ ഇമേജ് മെത്തേഡ് പ്രയോഗിക്കാൻ പറ്റിയ മറ്റൊരു ഉദാഹരണമാണ് ഗ്രൌണ്ട് ചെയ്ത അഥവാ പൊട്ടൻഷ്യൽ സീറോ ആയിട്ടുള്ള ഒരു ലോഹ ഗോളം ഈ ലോഹ ഗോളത്തിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും d ദൂരത്തിൽ ഒരു ചാർജ് q സ്ഥിതിചെയ്യുന്നതായി സങ്കൽപ്പിക്കുക ഇവിടെയും നമുക്ക് താൽപ്പര്യമുള്ള ഈ മേഖലയ്ക്കു പുറത്തുള്ള മറ്റൊരു ചാർജ് കണ്ടെത്താൻ കഴിയും ഇവിടെ എനിക്ക് താല്പര്യമുള്ള മേഖല എന്നത് ഈ ലോഹ ഗോളത്തിന്റെ പുറത്തുള്ള വോളിയം ആണ് അപ്പോൾ ബൌണ്ടറി കണ്ടീഷനുകൾക്ക് വിധേയമായി ഈ ലോഹ ഗോളത്തിനുള്ളിൽ എനിക്ക് മറ്റൊരു ചാർജ് കണ്ടെത്താനാകും എന്താണ് ഇവിടെ ഉള്ള ബൌണ്ടറി കണ്ടീഷൻ ഇൻഫിനിറ്റിയിൽ പോട്ടെൻഷ്യൽ സീറോ ഇവിടെ കേന്ദ്രം അഥവാ ഒറിജിൻ ഈ ബിന്ദുവാണെങ്കിൽ rR ആകുമ്പോൾ പോട്ടെൻഷ്യൽ സീറോ ഇവിടെ R എന്നത് ഗോളത്തിന്റെ റേഡിയസ് ആണ് അപ്പോൾ ബൌണ്ടറി കണ്ടീഷൻ V∞0 VrR0 ഈ രണ്ടു ബൌണ്ടറി കണ്ടീഷനുകൾക്കും അനുസൃതമായി q ചാർജിന്റെ പൊട്ടൻഷ്യലുമായി ചേർത്ത് മറ്റൊരു ചാർജ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു എന്നാണ് കാരണം ഇതായിരിക്കും ഇതിനു മാത്രമായുള്ള ഏക സൊല്യൂഷൻ അഥവാ യുണീക് സൊല്യൂഷൻ അതിനാൽ ഈ ഗോളത്തിന്റെ കേന്ദ്രം O ചാർജ് q ഇവ യോജിപ്പിക്കുന്ന നേർരേഖയിൽ ഗോളത്തിനുള്ളിലായി ഞാൻ ഒരു ചാർജ് q വെക്കുന്നതായി സങ്കൽപ്പിക്കുക ഇനി ബൌണ്ടറി കണ്ടീഷൻ ശരിയാകുന്നുണ്ടോയെന്നു നോക്കാം അടുത്തതായി നമുക്ക് പൊട്ടൻഷ്യൽ V കാണണം ഇവിടെ കേന്ദ്രം O ചാർജ് q ഇവ യോജിപ്പിക്കുന്ന രേഖയുടെ ദിശയാണ് ẑ ദിശയായി എടുത്തിരിക്കുന്നത് ഇത് മനസിലാക്കാൻ ഞാൻ മറ്റൊരു ചിത്രവും വരച്ചു കാണിക്കാം ഇവിടെ ഇത് ẑ ദിശയാണെന്നിരിക്കട്ടെ ഇതേ ദിശയിൽ കേന്ദ്രത്തിൽ നിന്നും d ദൂരത്തിൽ q എന്ന ചാർജ് എടുക്കാം അങ്ങനെയെങ്കിൽ കേന്ദ്രം O ചാർജ് q ഇവ യോജിപ്പിക്കുന്ന അതേ നേർരേഖയിൽ ẑ ദിശയിലാണ് കേന്ദ്രത്തിൽ നിന്നും d ദൂരത്തിൽ q എന്ന ചാർജ് സങ്കൽപ്പിക്കുന്നത് അപ്പോൾ രണ്ടു ചാർജും ചേർന്നുള്ള പൊട്ടൻഷ്യൽ V എന്നത് ഇവിടെ ഒന്നാമത്തെ പദം ചാർജ് q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും റെഡ് പേന ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പദം ചാർജ് q കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലുമാണ് രണ്ടാമത്തെ ചാർജ് ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായ ദൂരത്തിലാണ് ലോഹ ഗോളത്തിനുള്ളിൽ വെച്ചിരിക്കുന്നതെങ്കിലും ഗോളത്തിനു പുറത്തു പോയിസോൻസ് ഇക്വേഷൻ Poisson's equation മാറില്ല ഇവിടെ നമുക്കറിയാം അതുപോലെ തന്നെ ഇവിടെ 𝜃 മാറുന്നില്ല കാരണം രണ്ടു ചാർജും ഒരേ നേർ രേഖയിലാണ് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ഒരേ Z ആക്സിസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ ഈ ചാർജുകൾ സൃഷ്ടിക്കാനായി ഞാനിവിടെ ചില മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയല്ലാതെ രണ്ടു വ്യത്യസ്ത ചാർജുകൾ കാരണമുള്ള പൊട്ടൻഷ്യൽ സീറോ ആകുന്ന തരത്തിലുള്ള ഒരു പ്രതലം കണ്ടെത്തിയും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കയാണ് ആദ്യമായി ഞാൻ ഇക്വേഷൻ മാറ്റി എഴുതുകയാണ് നേരത്തെ എഴുതിയ ഇക്വേഷനിലെ ആദ്യ പദത്തിലെ ഡിനോമിനേറ്ററിൽ നിന്നും r ഉം രണ്ടാമത്തെ പദത്തിലെ ഡിനോമിനേറ്ററിൽ നിന്നും d ഉം സ്ക്വയർ റൂട്ടിൽ നിന്നും പുറത്തേക്കെടുക്കുന്നു അപ്പോൾ ഇനി എന്താണ് നമുക്ക് വേണ്ടത് ഇവിടെ ആകുമ്പോൾ V 0 ആകണം അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് സീറോ ആകേണ്ടതുണ്ട് നമ്മൾ എന്ന് വരുന്ന രീതിയിൽ എടുത്താൽ q d എന്നിങ്ങനെ രണ്ടു ക്വാണ്ടിറ്റികൾ കണ്ടുപിടിക്കേണ്ടതായുണ്ട് ഇതിനായി നമുക്ക് രണ്ട് ഇക്വേഷനും ലഭിച്ചിട്ടുണ്ട് ഈ രണ്ടു ഇക്വേഷനും ഉപയോഗിച്ച് കാരണം d R ആണ് അതുപോലെ അപ്പോൾ നമ്മൾ ചെയ്തതെന്തെന്നാൽ ഒരു ഗ്രൌണ്ട് ചെയ്ത ഗോളത്തിനു സമീപം കേന്ദ്രത്തിൽ നിന്നും d ദൂരത്തിൽ q എന്ന ചാർജ് ഉണ്ടെന്നു സങ്കല്പിച്ചു ഗോളത്തിന്റെ ഉപരിതലത്തിൽ പൊട്ടൻഷ്യൽ സീറോ ആകുന്ന വിധത്തിൽ മറ്റൊരു ചാർജ് q qRd കേന്ദ്രത്തിൽ നിന്നും d R2d അകലത്തിൽ വെച്ച് r R അതായത് ഗോളത്തിന്റെ ഉപരിതലത്തിലും r ∞ യിലും പൊട്ടൻഷ്യൽ സീറോ എന്ന ബൌണ്ടറി കണ്ടീഷൻ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഈ ബൌണ്ടറി കണ്ടീഷൻ സംജാതമാകുന്ന തരത്തിൽ ചാർജുകളുടെ മിശ്രണം അഥവാ കോമ്പിനേഷൻ കണ്ടെത്തി ഈ ഗോളത്തിന്റെ പുറത്തുള്ള മേഖലയിൽ ഇത് Z ആക്സിസിലാണെങ്കിൽ നമ്മൾ dẑ എന്നെടുക്കുന്നു ഇവിടെ നമ്മൾ ഗ്രൌണ്ട് ചെയ്ത ഗോളത്തിന്റെ പുറത്തുള്ള മേഖലയിൽ പൊയിസോൻ ഇക്വേഷനു വിധേയമായി ബൌണ്ടറി കണ്ടീഷൻ ശരിയാകുന്ന രീതിയിൽ രണ്ടു ചാർജുകളുടെ കോമ്പിനേഷൻ കണ്ടിരിക്കയാണ് അതായത് ഇവിടെ സൊല്യൂഷൻ അപ്പോൾ ഒരു പ്രത്യേക സൊല്യൂഷൻ ഉപയോഗിച്ച് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാവുന്നതാണെന്ന് രണ്ടു വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തന്നിരിക്കയാണ് ഇത് വിശദീകരിക്കാനായി ഞാനിവിടെ ഗ്രൌണ്ട് ചെയ്ത് പൊട്ടൻഷ്യൽ സീറോ ആക്കിയിരിക്കുന്ന ഒരു പരന്ന പ്രതലത്തിന്റെ മുന്നിലുള്ള ചാർജും ഗ്രൌണ്ട് ചെയ്ത് പൊട്ടൻഷ്യൽ സീറോ ആക്കിയിരിക്കുന്ന ഒരു ലോഹ ഗോളത്തിന്റെ മുന്നിലുള്ള ചാർജും ഉദാഹരണമായി എടുത്തു ബൌണ്ടറി കണ്ടീഷനും പോയിസോൻ ഇക്വേഷനും അനുസരിക്കുന്ന വിധത്തിൽ ചാർജുകളുടെ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാമെന്നും ഇതിലൂടെ ഒരു പ്രത്യേകമായ സൊല്യൂഷൻ ലഭിക്കുമെന്നും ഇവിടെ കാണിച്ചു തന്നിരിക്കയാണ് സമനിരപ്പിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ച് പരന്ന പ്രതലത്തിന്റെ സൊല്യൂഷൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ അതേ രീതി ഗോളത്തിന്റെ കാര്യത്തിലും അവലംബിക്കാവുന്നതാണ് അത് ഒരു അസൈൻമെന്റ് ആയി നിങ്ങൾക്ക് തന്നേക്കാം